ബയോ റിയാക്ടറുകളെക്കുറിച്ചുള്ള 12ആമത്തെ എൻപിടിഇഎൽ ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ പ്രഭാഷണത്തിൽ പ്രാക്ടീസ് പ്രശ്നങ്ങളിലൊന്ന് നമ്മൾ പരിഹരിച്ചിരുന്നു ഈ പ്രഭാഷണത്തിൽ ഓപ്പറേഷൻ മോഡുകൾ വിശകലനം ചെയ്യുന്ന മൊഡ്യൂൾ 3 തുടരാം മുമ്പത്തെ പ്രഭാഷണത്തിൽ നമ്മൾ ബാച്ച് മോഡ് കണ്ടു ഈ പ്രഭാഷണത്തിൽ നമ്മൾ തുടർച്ചയായ മോഡ് കാണും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തുടർച്ചയായ ഇളക്കിയ ടാങ്ക് ബയോ റിയാക്ടറിനെ കീമോസ്റ്റാറ്റ് എന്നു വിളിക്കുന്നു തുടർച്ചയായ ഇളക്കിയ ടാങ്ക് ബയോ റിയാക്ടറിനായി ഉപയോഗിക്കുന്ന വളരെ സാധാരണമായ പദം അതിനാൽ ഒരു കീമോസ്റ്റാറ്റിലെ വളർച്ചയെക്കുറിച്ച് നമ്മൾ നോക്കും തുടർച്ചയായ ഇളക്കിവിടുന്ന ടാങ്ക് ബയോറെയാക്റ്ററിന്റെ അല്ലെങ്കിൽ ഒരു കീമോസ്റ്റാറ്റിന്റെ പ്രാതിനിധ്യം മുകളിൽ നൽകിയിരിക്കുന്നു നിങ്ങൾക്ക് ഇളക്കിയ ടാങ്ക് ഉണ്ട് ഇളക്കുന്നത് പാത്രം ബ്രോത്ത് അല്ലെങ്കിൽ കോശങ്ങൾ വളരുന്ന ദ്രാവകം എന്നിവ കോശങ്ങൾ യഥാർത്ഥത്തിൽ ഈ ചിത്രത്തിൽ വലുതായി കാണപ്പെടുന്നു നമുക്ക് കോശത്തിനെ സാധാരണ ഒറ്റ കോശമായി കാണാൻ കഴിയില്ല അളവെടുക്കാൻ നമുക്ക് വിവിധ തരം പ്രോബുകളുണ്ട് ഒരുപക്ഷേ ഡി ഒ പി എച്ച് താപനില പ്രോബുകൾ എന്നിവയുണ്ട് ഇത് ഒരു എയറോബിക് ബയോ റിയാക്ടറാണെന്ന് അനുമാനിക്കാം ഇൻപുട്ടിൽ തുടർച്ചയായി ഒരു സ്ട്രീമും ഉണ്ട് ഫീഡ് നിരക്ക് ഇൻലെറ്റിലെ ഓരോ സമയത്തും വോള്യൂമെട്രിക് ഫീഡ് റേറ്റ് വ്യാപ്തം Fi ഫീഡിലെ സബ്സ്ട്രേറ്റ് സാന്ദ്രത S i ഫീഡിലെ കോശ സാന്ദ്രത xi ആണ് എന്ന് നമുക്ക് എടുക്കാം ബയോ റിയാക്ടറിന്റെ ഔട്ട്ലെറ്റിലെ അതേ പാരാമീറ്ററുകൾ F പൂജ്യം അല്ലെങ്കിൽ F o F o എന്നത് ഔട്ട് ലെറ്റ് വോള്യൂമെട്രിക് ഫീഡ് നിരക്ക് 'S' ഇവിടെ സബ്സ്ട്രേറ്റ് ഗാഢത X ഇവിടെ കോശ ഗാഢത അതായത് ബ്രോത്ത് വോളിയം എന്നിവയാണ് ഇതിനെ V എന്ന് എടുക്കാം നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ഇതിന്റെ ഒരു ഭാഗം പുറത്തെടുക്കുന്നു സബ്സ്ട്രേറ്റ് ഗാഢതയും കോശ ഗാഢതയും ഔട്ട് ലെറ്റ് ധാരയിൽ ഒരേപോലെയായിരിക്കും കാരണം നന്നായി മിശ്രിതമുള്ളത് ആണ് പുറത്ത് എടുക്കപ്പെട്ടുന്നതസാന്ദ്രത തുല്യമായിരിക്കും ഇനി നമുക്ക് വോളിയോമെട്രിക് ഫീഡ് നിരക്ക് ദ്രാവക വ്യാപ്തം കൊണ്ട് ഹരിച്ചാൽ ഡയല്യൂഷൻ റേറ്റ് കിട്ടും അതിനാൽ ഈ നിശ്ചിത ഫീഡ് നിരക്കിനെ വ്യാപ്തം കൊണ്ട് ഹരിച്ചാൽ എന്തായിരിക്കും കിട്ടുക എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ഫീഡ് നിരക്കിനെ വ്യാപ്തം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഒരു യൂണിറ്റ് സമയത്തിന് പ്രോസസ്സ് ചെയ്ത റിയാക്ടർ വോള്യങ്ങളുടെ എണ്ണമായി വ്യാഖ്യാനിക്കാം അതിനാൽ ഇതിന് വിപരീത സമയത്തിന്റെ ഒരു യൂണിറ്റ് ആവശ്യമാണ് അതിനെക്കുറിച്ച് അൽപ്പം ചിന്തിക്കുക ഓരോ പ്രോസസ്സിനും പ്രക്രിയയും ഓരോ റിയാക്റ്റർ വോള്യങ്ങളുടെ വ്യാഖ്യാനത്തിൽ ശരി ആകുന്നുണ്ടോ എന്ന് നോക്കുക സാധാരണയായി കീമോസ്റ്റാറ്റിന്റെ ഇൻലേറ്റിൽ കോശങ്ങളൊന്നും ഇല്ല ഈ അവസ്ഥയെ യഥാർത്ഥത്തിൽ അണുവിമുക്തമായ ഫീഡ് അവസ്ഥ എന്ന് വിളിക്കുന്നു ഫീഡിൽ കോശങ്ങളൊന്നുമില്ല അത് അണുവിമുക്തമാണ് അതിനാൽ ഇത് അണുവിമുക്തമായ ഫീഡ് ആണ് നിങ്ങൾ മറ്റൊരു രീതിയിൽ ഒരു കീമോസ്റ്റാറ്റ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഇതാണ് സാധാരണ പ്രവർത്തന രീതി മറ്റൊരു കീമോസ്റ്റാറ്റിൽ അടുപ്പിച്ചിരിക്കാം അല്ലെങ്കിൽ മറ്റൊരു ബയോ റിയാക്ടറിൽ ഘടിപ്പിച്ചിരിക്കാം അവ വ്യത്യസ്തമാണ് ഒറ്റയ്ക്ക് നിൽക്കുന്ന കീമോസ്റ്റാറ്റുകൾക്ക് സാധാരണയായി ഇൻലെറ്റ് കോശ സാന്ദ്രത ഇല്ല അവ ഇൻലെറ്റ് സ്ട്രീമിലെ സബ്സ്ട്രേറ്റ് ആണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ നന്നായി മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം കീമോസ്റ്റാറ്റുകൾ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഇവിടെ ഒരു ഫീഡിൽ ആരംഭിക്കുന്ന ഒരു പാത്രം നമ്മൾക്ക് ഉണ്ടാകും അതിനുമുമ്പ് ഒന്നും തന്നെയില്ല ഇൻ ലറ്റ് ഔട്ട്ലെറ്റ് ഒഴുക്കുകൾ തമ്മിൽ തീർച്ചയായും ഒരു വ്യത്യാസമുണ്ടാകും നമ്മൾ അത് നിഷേധിക്കുന്നില്ല അതിനാൽ ഒഴുക്കുകൾ ക്രമീകരിക്കാൻ കഴിയുന്നതുവരെ അത് സമാനമാകുന്നതിന് കുറച്ച് മണിക്കൂറുകൾ എടുത്തേക്കാം കൂടാതെ അവസ്ഥകൾ സ്ഥിരമായ അവസ്ഥയിലേക്ക് നീങ്ങുന്നതിന് ഇൻലറ്റിലും ഔട്ട്ലെറ്റിലും വ്യത്യാസങ്ങൾ ഉണ്ടാകും നാം ആ സമയത്തെ ഒട്ടും നോക്കുന്നില്ല അവ ആരംഭ അവസ്ഥകളാണ് അവിടെ അസ്ഥിരമായ അവസ്ഥയും അടച്ചുപൂട്ടൽ വ്യവസ്ഥകളും ഉണ്ടാകും നിങ്ങൾ ബയോ റിയാക്റ്റർ അടച്ചു പൂട്ടുമ്പോൾ അത് ഉചിതമായ രീതിയിൽ ചെയ്യേണ്ടതുണ്ട് തുടർന്ന് പ്രക്രിയ ഒരു സ്ഥിരമായ അവസ്ഥയായിരിക്കില്ല കീമോസ്റ്റാറ്റിന്റെ മൊത്തത്തിലുള്ള ദൈർഘ്യവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് ഒരു ഹ്രസ്വകാല ദൈർഘ്യമാകുമെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ മിക്ക സമയദൈർഘ്യവും സ്ഥിരമായ അവസ്ഥയിലായിരിക്കും മാത്രമല്ല നമ്മൾ കീമോസ്റ്റാറ്റിന്റെ പ്രവർത്തനത്തിന്റെ സ്ഥിരമായ ഭാഗം മാത്രം നോക്കാൻ പോകുന്നു നിങ്ങൾ ഇത് മനസ്സിൽ സൂക്ഷിക്കേണ്ടതുണ്ട് അതിനാൽ ഇതാണ് ഇവിടെ പറയുന്നത് ആരംഭിക്കുന്നതിനോ അടച്ചുപൂട്ടുന്നതിനോ ഉള്ള മൊത്തം പ്രവർത്തന സമയത്തിന്റെ അംശം ചെറുതാണ് ഇവിടെ ആരംഭഘട്ടമോ അടച്ചുപൂട്ടുന്ന അവസ്ഥയോ നമ്മൾ പരിഗണിക്കില്ല സ്ഥിരമായ അവസ്ഥയിൽ മാത്രമേ നമുക്ക് താൽപ്പര്യമുള്ളൂ എസ് എഫ് വോള്യൂമെട്രിക് ഫീഡ് റേറ്റ് ആയിരിക്കുമ്പോൾ എസ് ഔട്ട്ലെറ്റ്ലെ സബ്സ്ട്രേറ്റിന്റെ സാന്ദ്രത x എന്നത് ഔട്ട്ലെറ്റിലെ കോശ സാന്ദ്രതയും ദ്രാവകത്തിന്റെ വോളിയവുമാണ് ഈ വേരിയബിളുകളെല്ലാം സമയത്തിനനുസരിച്ച് മാറില്ല ഈ അവസ്ഥയാണ് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത് തുടർച്ചയായ ബയോ റിയാക്റ്റർ അല്ലെങ്കിൽ കീമോസ്റ്റാറ്റ് അതിന്റെ ഉപയോഗപ്രദമായ സമയത്തിൽ പ്രവർത്തിക്കേണ്ട അവസ്ഥയാണിത് സ്റ്റഡി സ്റ്റേറ്റ് ഓപ്പറേഷൻ കണ്ടീഷൻസ് ഉണ്ടാക്കുക ക്രിറ്റിക്കൽ ഡയല്യൂഷൻ റേറ്റ് കണ്ടെത്തുക മാക്സിമം ഓപ്പറബിൾ ഡയല്യൂഷൻ റേറ്റ്maximum dilution rate കണ്ടെത്തുക കീമോ സ്റ്റാറിലെ പ്രൊഡക്ടിവിറ്റി ക്ക് ഒരു എക്സ്പ്രഷൻ കണ്ടെത്തുക അതിനുശേഷം ബാച്ച്ബയോ റിയാക്ടർ പ്പ്രൊഡക്ടിവിറ്റിയുമിയി താരതമ്യം ചെയ്യുക എന്നതൊക്കയാണ് നമ്മുടെ ലക്ഷ്യം ഇനി വിശദീകരിക്കാം നേരത്തെ കാണിച്ച അതേകീമോസ്റ്റാറ്റ് Fi Si xi ഇൻലെറ്റ് ആണ് xi ഇവിടെ പൂജ്യമാണ് F0 ഔട്ട്ലെറ്റ് വോള്യൂമെട്രിക് ഒഴുക്കിൻറെ തോത് S x എന്നിവ യഥാക്രമം സബ്സ്ട്രേറ്റിന്റെയും കോശഗാഢതയും ആകുന്നു ബ്രോത്തിന്റെ വ്യാപ്തം V ആണ് ഈ ഡോട്ട് ഇട്ടതും വരച്ചതുമായ വരികളാൽ സൂചിപ്പിച്ചതാണ് സിസ്റ്റം ഇവയെല്ലാം വച്ച് ഒരു മാസ്സ് ബാലൻസ് ചെയ്യാംമാസ് ബാലൻസ് എന്നു പറഞ്ഞാൽ ഇൻപുട്ട് മൈനസ് ഔട്ട്പുട്ട് നിരക്കും ഉൽപാദന തോത് മൈനസ് ഉപഭോഗനിരക്ക് സമം മൊത്തം മാസ്സിൻറെ ശേഖരണം ആണ് ഇത് മൊത്ത മാസ്സിൽ ചെയ്യുന്നതിനാൽഒന്നും ഇവിടെ ഉണ്ടാകുന്നില്ലഉപഭോഗവും ഇല്ല മൊത്തം മാസ്സ് എല്ലായ്പ്പോഴും സംരക്ഷിക്കപ്പെടുന്നു അപ്പോൾ ഇൻപുട്ടും ഔട്പുട്ടും മാത്രം ഈ സ്ഥിരമായ അവസ്ഥയിൽ ആണ് നാം നോക്കുന്നത് അതിനാൽ ഏത് സമയത്തും ഡെറിവേറ്റീവ് പൂജ്യമായിരിക്കും സ്ഥിരമായ ഒരു അവസ്ഥയുടെ നിർവചനം അനുസരിച്ച് ഈ പദം പൂജ്യമാകുന്നു ഇൻപുട്ട് നിരക്കും ഔട്ട്പുട്ട് നിരക്കും തുല്യമായിരിക്കും ഇതാണ് മൊത്തം മാസ്സ് 𝑟𝑖 𝑟𝑜 വോള്യൂമെട്രിക് ഫ്ലോ റേറ്റ് അടിസ്ഥാനത്തിൽ ഇൻപുട്ട് റേറ്റ് എന്താണ് വോളിയം മെട്രിക് ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞാൽ വ്യാപ്തത്തെ സമയം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് വോള്യൂമെട്രിക് ഫ്ലോ റേറ്റിനെ സാന്ദ്രതകൊണ്ട് ഗുണിച്ചാൽ നമുക്ക് മാസ്സ് നിരക്ക് ലഭിക്കും അതിനാൽ 𝐹𝑖 𝜌𝑖 𝐹0 𝜌0 𝜌 ദ്രാവക സാന്ദ്രതയാണ് 𝜌𝑖 ഇൻകമിംഗ് സ്ട്രീം ദ്രാവകത്തിന്റെ സാന്ദ്രത 𝜌0 എന്നത് ഔട്ട്ഗോയിംഗ് സ്ട്രീമിന്റെ സാന്ദ്രതയാണ് സാധാരണയായി ഈ രണ്ട് സ്ട്രീമുകൾക്കിടയിൽ വ്യത്യാസമുണ്ടാകില്ല നമ്മൾ അന്തരീക്ഷ ഊഷ്മാവിലാണ് പ്രവർത്തിപ്പിക്കുന്നത് സാധാരണ അവസ്ഥയിൽ 30 ഡിഗ്രി 37 ഡിഗ്രി സെൽഷ്യസ് ഒരു അന്തരീക്ഷമർദ്ദം ഈ സാഹചര്യങ്ങളിൽ ഈ രണ്ട് ധാരകൾക്കിടയിൽ ഉള്ള സാന്ദ്രതയിൽ വ്യത്യാസം ഉണ്ടാകാനിടയില്ല അതിനാൽ 𝜌𝑖 ഉം𝜌𝑜 ഒഴിവാക്കാം ഒരു മാസ് ബാലൻസിലൂടെ ഫ്ലോ റേറ്റ് തുല്യമായിരിക്കുമെന്ന് നമ്മൾക്ക് ലഭിച്ചു ഇപ്പോൾ അതേ സിസ്റ്റത്തിൽ കോശങ്ങളിൽ ഒരു മാസ് ബാലൻസ് ചെയ്യാൻ പോകുന്നു നേരത്തെ ഇത് മൊത്തം മാസ് ബാലൻസ് ആയിരുന്നു ഇപ്പോൾ നമ്മൾ കോശങ്ങളിലാണ് മാസ് ബാലൻസ് ചെയ്യാൻ പോകുന്നത് ഇതാണ് യഥാർത്ഥ സമവാക്യം സിസ്റ്റത്തിൽ കോശങ്ങളിൽ ഇൻപുട്ട് ഇല്ല ഇത് അണുവിമുക്തമായ ഒരു ഫീഡാണ് ri പൂജ്യമാണ് കോശങ്ങളുടെ ഉപഭോഗം ഇല്ലഅതായത് കോശങ്ങളുടെ മരണമില്ല rc പൂജ്യത്തിലേക്കും സ്റ്റേടി സ്റ്റേറ്റ് ഡെറിവേറ്റീവും പൂജ്യത്തിലേക്ക് പോകുന്നു അതിനാൽ നമുക്ക് ലഭിക്കുന്നു 𝑟𝑜 𝑟𝑔 അതിനാൽ ഔട്പുടിന്റെ നിരക്ക് കോശങ്ങളുടെ ഉത്പാദന നിരക്കിന് തുല്യമായിരിയ്ക്കും ഔട്ട്പുട്ടിന്റെ നിരക്ക് എന്താണ് കോശ ഗാഢതയുടെ വോള്യൂമെട്രിക് ഫ്ലോറേറ്റ് ഇത് യൂണിറ്റുകളുടെ അടിസ്ഥാനത്തിൽ ചെയ്താൽ കോശ ഗാഢതയെ വോള്യൂമെട്രിക് ഫ്ലോ റേറ്റ് കൊണ്ടു ഗുണിച്ചാൽ കിട്ടുന്നതാണ് ഇതിൻറെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ വാസ്തവത്തിൽ ഔട്ട്ലെറ്റ് സ്ട്രീമിലെ കോശങ്ങളുടെ മാസാണെന്നു കണ്ടെത്തുംμ x മുതൽ V വരെ μ x നിരക്ക് കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നത് μxV ക്ക് സമമാകും ഒരു മാസിൻറെ അടിസ്ഥാനത്തിൽ കിട്ടാൻ അതിനെ വ്യാപ്തം കൊണ്ട് ഗുണിക്കണം അതിനാൽ 𝐹 𝑥 𝜇 𝑥 𝑉 നമ്മൾ ഈ സമവാക്യം മാറ്റി പൊതുവായ x പുറത്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് F V ക്ക് പകരം D ഉപയോഗിക്കാം അതായത് ഡൈല്യൂഷൻ റേറ്റ് 0 𝜇 − 𝐷 𝑥 അതിനാൽ ഈ രണ്ട് പദങ്ങളുടെ ഗുണനം പൂജ്യത്തിന് തുല്യമാണെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് പൂജ്യംആയിരിക്കണം 𝜇 − 𝐷 0 or x 0 അല്ലെങ്കിൽ രണ്ടും അത്തരം സാഹചര്യങ്ങളിൽ മാത്രമേ സമവാക്യം സാധുതയുള്ളൂ ഇപ്പോൾ ഈ രണ്ട് വ്യവസ്ഥകൾ നോക്കാം x 0 എന്താണ് അർത്ഥമാക്കുന്നത് അതായത് x പൂജ്യമായാൽ ഔട്ട്ലെറ്റ് സ്ട്രീമിലെ കോശങ്ങളുടെ ഗാഢത ഇല്ല എന്നാണ് അതായത് ഔട്ട്ലെറ്റ് സ്ട്രീമിൽ കോശങ്ങളൊന്നും പുറത്തു വരുന്നില്ല അതിനെ വാഷ് ഔട്ട് അവസ്ഥ എന്ന് വിളിക്കുന്നു ഒരു കീമോസ്റ്റാറ്റ് പ്രവർത്തനത്തിൽ ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കാം കോശങ്ങൾ പുറത്തുവരാതിരിക്കുക അത്തരം സാഹചര്യങ്ങളിൽ റിയാക്ടർ സ്ഥിരമായ അവസ്ഥയായിരിക്കും ഇത് ഉപയോഗശൂന്യമായ അവസ്ഥയാണ് അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾക്ക് ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയില്ല നിങ്ങൾക്കറിയാമോ ഇത് ഔട്ടലെറ്റിൽ കോശങ്ങൾ ഇല്ലാത്ത ഉൽപാദനക്ഷമതയില്ലാത്ത സ്ഥിരതയുള്ള അവസ്ഥയാണ് ഇതിനെയാണ് യഥാർത്ഥത്തിൽ വാഷഔട്ട് അവസ്ഥ എന്ന് വിളിക്കുന്നത് ഇവിടെ mu സമം D ആണ് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് വളരെ ലളിതമായ ഒരു സമവാക്യമാണെങ്കിലും ഡൈലൂഷൻ റേറ്റ് വളർച്ചാ നിരക്കിനെ നിർണ്ണയിക്കുന്നുവെന്ന് പറയുന്നു കാരണം ഡൈലൂഷൻ റേറ്റ് FV ആണ് തന്നിരിക്കുന്ന റിയാക്ടറിനുള്ള ഡൈലൂഷൻ റേറ്റ് എങ്ങനെ മാറ്റും ഒരു നിശ്ചിത റിയാക്ടറിന് ഫ്ലോ റേറ്റ് മാറ്റിക്കൊണ്ട് മാറ്റാം വ്യാപ്തം ഇവിടെ സ്ഥിരമായ ഒന്നാണ് ഫ്ലോ റേറ്റ് മാറ്റിക്കൊണ്ട് ഡൈലൂഷൻ റേറ്റ് മാറ്റാം അല്ലേ അതിനാൽ ഒരു നോബ് ട്വീക്ക് ചെയ്യുന്നതിലൂടെ ഡൈലൂഷൻ റേറ്റ് എന്ന ഒരു ഓപ്പറേഷൻ പാരാമീറ്റർ മാറ്റുന്നതിലൂടെ ജൈവ പരാമീറ്റർ ആയ ജീവിയുടെ വളർച്ചാ നിരക്കിനെ നിയന്ത്രിക്കാൻ നമ്മൾക്ക് കഴിയും അതായത് ഒരു പ്രവർത്തന പാരാമീറ്റർ ആയ v ഈ സമവാക്യത്തിൽ F എന്ന പ്രവർത്തന പാരാമീറ്റർ നിർണ്ണയിക്കുന്നു ഒരു കീമോസ്റ്റാറ്റിന്റെ പ്രവർത്തനത്തിന്റെ സ്ഥിരമായ അവസ്ഥയിൽ അത് സംഭവിക്കും അതിനാൽ കോശങ്ങൾ ഉയർന്ന നിരക്കിൽ വളരണമെങ്കിൽ നമ്മൾ ഒരു പരിധി വരെ ഫ്ലോ റേറ്റ് വർദ്ധിപ്പിക്കണം നമ്മൾ ആകെ മാസ്സ് ചെയ്തു നമ്മൾ കോശങ്ങൾ ചെയ്തു ഇനി സിസ്റ്റത്തിലുള്ള സബ്സ്ട്രേറ്റിൽ ഒരു മാസ് ബാലൻസ് ചെയ്യാം മൊത്തം ബാലൻസ് സിസ്റ്റത്തിലുള്ള ബാലൻസ് സമവാക്യത്തിൽ ഇവിടെ നമ്മൾ സബ്സ്ട്രേറ്റിൽ ശ്രദ്ധ കേന്ദ്രീകരികരിക്കുന്നു ഒരു ഇൻപുട്ട് ഉണ്ട് സബ്സ്ട്രേറ്റിന്റെ ഔട്ട്പുട്ട്ഉണ്ട് ഈ രണ്ട് ധാരയിലും സബ്സ്ട്രേറ് ഉണ്ടാകുന്നില്ല ഉപഭോഗമുണ്ട് മാത്രമല്ല ശേഖരണവും ഇല്ല കാരണം ഇത് സ്ഥിരമായ അവസ്ഥയാണ് ഇവിടെ എല്ലാ സമയ ഡെറിവേറ്റീവുകളും പൂജ്യമാകും 𝑟𝑖 − 𝑟𝑜 − 𝑟𝑐 0 ഉത്പാദിപ്പിക്കുന്ന കോശങ്ങളുടെ അളവാണ് Y x S എന്ന് നമുക്ക് ഓർമിക്കാം അതായത് ഉത്പാദിപ്പിക്കുന്ന കോശങ്ങളുടെ അളവ് ഹരിക്കണം ഉപയോഗിച്ച സബ്സ്ട്രേട്ട് എന്തിനാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഫ്ലോ റേറ്റ് സബ്സ്ട്രേട് ഗാഢത എന്നിവ ഇൻപുട്ട് നിരക്ക് കണക്കിലെടുത്ത് എഴുതാം അതേസമയം സബ്സ്ട്രേറ്റിന്റെ ഉപഭോഗനിരക്കിനെ കുറിച്ച് നമുക്കറിയില്ല അതേസമയം കോശങ്ങളുടെ വളർച്ചാ നിരക്കിനെ കുറിച്ചറിയാം അതായത് വളർച്ചാ നിരക്കിന്റെ അടിസ്ഥാനത്തിൽ സബ്സ്ട്രേറ്റിന്റെ ഉപഭോഗനിരക്കിനെ കാണണം അതായത് യീൽഡ് കോയഫിഷ്യൻറ് Y x Sന് അത് ചെയ്യാൻ കഴിയും നമുക്ക് അത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അതായതു Y x S എന്നത് ഉത്പാദിപ്പിക്കുന്ന കോശങ്ങളുടെ അളവ് ഹരിക്കണം സബ്സ്ട്രേറ്റിന്റെ അളവ് താഴെയും മുകളിലും സമയം കൊണ്ട് ഹരിക്കുകമറുഭാഗത്തേക് കൊണ്ട് പോയാൽ ഉപഭോഗം ചെയ്യുന്ന സബ്സ്ട്രടിന്റെ നിരക്ക് സമം കോശ ഉൽപാദന നിരക്ക് ഹരിക്കണം Y x S ഇവിടെ കോശ ഉൽപാദന നിരക്ക് എന്താണ് ഇത് 𝜇𝑥𝑉 ആണ് അതിനാൽ സബ്സ്ട്രേറ്റിന്റെ മാസ്സിന്റെ ബാലൻസ് മാറുന്നു Fi F0 F നമ്മൾ അത് ഡെറിവേറ്റ് ചെയ്തതാണ് നമ്മൾ നിബന്ധനകൾ ഏകീകരിക്കുകയാണെങ്കിൽ കിട്ടുന്നത് നമുക്കറിയാം FDV സമവാക്യം ഇപ്പോൾ സ്റ്റഡി സ്റ്റേറ്റിൽ µ D ആയതുകൊണ്ട് എന്ന് കിട്ടും സ്ഥിരാവസ്ഥയിൽ µ D ആയത്കൊണ്ടും S µ നെ ബാധിക്കുന്നത് കൊണ്ടും അതായത്𝜇𝑚𝑆 Sനു പകരം വില കൊടുക്കുക വാഷൌട്ട് x പൂജ്യമാകുമ്പോൾ ഇൻലെറ്റിൽ നിന്ന് സബ്സ്ട്രേറ്റിന്റെ ഗാഢതയിൽ മാറ്റമുണ്ടാകില്ല ഇത് കോശങ്ങളുടെ ഉൽപാദനത്തിനായി ഉപയോഗിക്കുന്നില്ല ഇതര ജോലികൾകായി കുറച്ച് മാത്രമേ എടുക്കൂ അതിനാൽ S → Si വാഷൌട്ട് സംഭവിക്കുന്ന ഡൈലൂഷൻ Dc ആണെന്നിരിക്കട്ടെ നമ്മൾ എന്തിനാണ് ഇവ ചെയ്യുന്നതെന്ന് ഓർക്കുക സ്ഥിരമായ പ്രവർത്തനത്തിനുള്ള വ്യവസ്ഥകൾ ആണ് നമ്മൾ പരിശോധിക്കുന്നത് സ്ഥിരമായ പ്രവർത്തനത്തിൽ ക്രിട്ടികൽഡൈലൂഷൻ റേറ്റ് ആൾജിബ്റ ഉപയോഗിച്ച് ആണ് കണ്ടു പിടിക്കുന്നത് നമ്മൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് നമുക്ക് തിരികെ പോകാം വാഷഔട്ട് സംഭവിക്കുന്ന ഡൈല്യൂഷൻ നിരക്ക് മോണോഡ് മോഡലിൽ നിന്നും µ D Dc S→Si ആയത്കൊണ്ടും എന്ന് എഴുതാം എന്ന് എഴുതാം ഔട്ട്ലെറ്റ് ഗാഢതയ്ക്ക് എതിരായി ഡില്യൂഷൻ റേറ്റ് നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ കോശങ്ങളുടെ ഔട്ട്ലെറ്റ് ഗാഢത എന്ന് ആയിരിക്കും നമ്മൾ ഇത് ഒരു ഗ്രാഫിലേക്ക് മാറ്റിയാൽ ഇത് ഇതുപോലെയാകും ക്രിട്ടികൽഡൈലൂഷൻ റേറ്റ്ൽ കാണിക്കുകയാണെങ്കിൽ ഔട്ലേറ്റിൽ കോശങ്ങളൊന്നും ഇല്ല കോശങ്ങളുടെ ഗാഢത പൂജ്യമാണ് നമ്മൾ ഡെറിവേറ്റ് ചെയ്ത സമവാക്യത്തിൽ നിന്നും ഇതാണ് ക്രിട്ടികൽഡൈലൂഷൻ റേറ്റ് ഇൻലെറ്റിലെ സബ്സ്ട്രേറ്റിന്റെ ഗാഢത നിങ്ങൾക്ക് ഒരു കീമോസ്റ്റാറ്റ് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന മാർഗം ക്രിട്ടികൽഡൈലൂഷൻ റേറ്റ് ശേഷം വാഷ്ഔട്ട് ഉണ്ടാകും ആ സമയത്ത് കോശങ്ങൾ ഇല്ലസബ്സ്ട്രേറ്റിന്റെ പരിവർത്തനവും ഉണ്ടാകില്ല അവിടെ കീമോസ്റ്റാറ്റ് പ്രവർത്തിപ്പിക്കുന്നതിൽ അർത്ഥമില്ല ഇപ്പോൾ മൂന്നാമത്തെ ലക്ഷ്യം നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ നമ്മൾ കീമോസ്റ്റാറ്റിന്റെ സെൽ പ്രൊഡക്റ്റിവിറ്റി ഒരു ബാച്ച് ബയോറിയാക്ടറുമായി താരതമ്യം ചെയ്യാൻ പോവുകയായിരുന്നു അത് ചെയ്യുന്നതിന് സെൽ പ്രൊഡക്റ്റിവിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം ഒരു വ്യവസായത്തിൽ നിന്നുള്ള പൊതുവായ താൽപ്പര്യം സാധ്യമായ ഏറ്റവും കുറഞ്ഞ സമയത്ത് പരമാവധി അളവ് സൃഷ്ടിക്കുക എന്നതാണ് ഉൽപാദനക്ഷമത യഥാർത്ഥത്തിൽ നിർവചിച്ചിരിക്കുന്നത് ആ ആവശ്യത്തിനായിട്ടാണ് ഇത് ഒരു യൂണിറ്റ് സമയത്തിന് ഒരു യൂണിറ്റ് വ്യാപ്തത്തിൽ ഉൽപാദിപ്പിക്കുന്ന അളവാണ് ഒരു കീമോസ്റ്റാറ്റിൽ കോശങ്ങളുടെ ഉൽപാദനക്ഷമതയാണ് നോക്കേണ്ടത് അതായത് കോശങ്ങൾ പ്രൊഡക്ടിവിറ്റി എന്നത് ഒരു യൂണിറ്റ് സമയത്തിന് ഒരു യൂണിറ്റ് വ്യാപ്തത്തിൽ ഉൽപാദിപ്പിക്കുന്ന കോശങ്ങളുടെ അളവ് ആണ് കോശങ്ങൾ ഒരു ഉൽപ്പന്നം ഉൽപാദിപ്പിക്കുന്നു നിങ്ങൾ കോശ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ താൽപ്പര്യപ്പെടുന്നു കാരണം ഇത് കോശത്തിനുള്ളിലെ തന്മാത്രയുടെ ഉൽപാദന വർദ്ധനവിനെ നേരിട്ട് വിവർത്തനം ചെയ്യുന്നു കൂടുതൽ വ്യവസായ ശാല ഉണ്ടെങ്കിൽ എങ്കിൽ കൂടുതൽ ഉൽപ്പന്നങ്ങളും ഉണ്ടാകും നമ്മൾ കോശത്തിന്റെ ഉൽപ്പാദനക്ഷമത വർധിപ്പിക്കാനാണ് നോക്കുന്നത് അതിനാൽ നമ്മൾ കോശങ്ങളെ ത്തന്നെ നോക്കുന്നു ഒരു കീമോസ്റ്റാറ്റിൽ R സെൽ പ്രൊഡക്റ്റിവിറ്റി യെ പ്രതിനിധീകരിക്കുന്നുവെങ്കിൽ ആയിരിക്കും യൂണിറ്റ് വ്യാപ്തം നിർമ്മിക്കുന്ന കോശങ്ങൾ x ആയതിനാൽ 1 ഹരിക്കണം സമയം µ ആണ് ഗ്രാഫിൽ നമുക്ക് കാണാം d യുമായുള്ള കോശ ഗാഢത വ്യതിയാനം നമ്മൾ ഇതിനകം കണ്ടതാണ് സെൽ പ്രൊഡക്റ്റിവിറ്റി Dm പരമാവധി ഉൽപാദനക്ഷമതയിലെത്തുന്നതുവരെ വർദ്ധിച്ചുകൊണ്ടിരിക്കും തുടർന്ന് അത് പൂജ്യമാകുന്ന ക്രിട്ടികൽ ഡൈല്യൂഷൻ റേറ്റ് വരെ കുറയുകയും ചെയ്യും കോശങ്ങൾ പുറത്തുവരുന്നിടത്ത് സെൽ പ്രൊഡക്റ്റിവിറ്റി പൂജ്യമായിരിക്കും കോശ ഉൽപാദനക്ഷമത r പരമാവധി ആയ ഡൈല്യൂഷൻ റേറ്റ് D നമുക്ക് കണ്ടെത്താം സാധ്യമായ പരമാവധി ഉൽപാദനക്ഷമതനോക്കാം ഒരു ഫംഗ്ഷനായി ഗണിതശാസ്ത്രപരമായി പരമാവധി അവസ്ഥകൾ നമുക്കറിയാം ഉദാഹരണത്തിന് 𝑅 𝑓𝐷 എന്ന ഫംഗ്ഷന് മാക്സിമയിൽ സെൽ ഉൽപാദനക്ഷമത R എന്നത് 𝑅 𝜇𝑥 കീമോസ്റ്റാറ്റിൽ 𝜇 𝐷 ആയതിനാൽ 𝑅 𝐷𝑥 X എന്നെടുക്കാം Dയുടെ അടിസ്ഥാനത്തിൽ Sന് പകരം കൊടുക്കുക ഒരു ഫംഗ്ഷനായി 𝑅 𝑓𝐷 എന്ന് എടുക്കാം മാക്സിമയ്ക്കുള്ള വ്യവസ്ഥകൾ അതിനാൽ പരമാവധി സെൽ പ്രൊഡക്റ്റിവിറ്റി കിട്ടാൻ ൽ നിന്ന് R ന് പകരം കൊടുത്താൽ 𝜇𝑚 − 𝐷2 ഉപയോഗിച്ച് ഉടനീളം ഗുണിക്കുന്നു ഇത് D യുടെ ക്വാഡ്രറ്റിക് സമവാക്യമാണ് D കണ്ടുപിടിച്ചാൽ അതായത് പരമാവധി സെൽ പ്രൊഡക്റ്റിവിറ്റിയിൽ ഡൈല്യൂഷൻ റേറ്റ് Dm എന്നത് YxS രണ്ടു ഭാഗത്തു നിന്നും ഒഴിവാക്കാം 𝜇𝑚 − 𝐷2 കൊണ്ട് ഇരുഭാഗവും ഗുണിക്കുക ഈ സമവാക്യം പുനക്രമീകരണം ചെയ്താൽ Dയുടെ ക്വാഡ്റാറ്റിക് സമവാക്യം ലഭിക്കും രണ്ടാമത്തെ ഡെറിവേറ്റീവ് പൂജ്യത്തെക്കാൾ ്് താഴെയാണ് എങ്കിൽ Dയ്ക്ക് പരമാവധി വിലയായിരിക്കും ആണെങ്കിൽ ഇപ്പോൾ Dm ലെ കോശത്തിനൻറെ ഗാഢതയെ കുറിച്ച് നമുക്ക് നോക്കാം കോശത്തിനൻറെ സെൽ പ്രൊഡക്റ്റിവിറ്റി പരമാവധി ആയിരിക്കുമ്പോൾ ലഭിച്ച കോശത്തിനൻറെ ഗാഢത xm ആണെങ്കിൽ സമവാക്യത്തിൽ പ്രസക്തമായ വേരിയബിളുകൾ ഉപയോഗിച്ചാൽ നമുക്ക് xm ന് ഒരു സമവാക്യം ലഭിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾക്ക് Xm ന് ഉചിതമായ സമവാക്യം ലഭിക്കും പരമാവധി സെൽ പ്രൊഡക്റ്റിവിറ്റി യിൽ കോശത്തിനൻറെ ഗാഢത xm എന്ന് നമുക്കറിയാം അതിനാൽ മറ്റെല്ലാ വേരിയബിളുകളും പരമാവധി സെൽ പ്രൊഡക്റ്റിവിറ്റി കിട്ടതക്കവണ്ണമായിരിക്കും D യഥാർത്ഥത്തിൽ ഇവിടെ Dm ആകും ബാക്കിയുള്ളവ അതുപോലെ തന്നെ ഇവിടെ ഒരു മാറ്റവും സംഭവികുന്നില്ല D D m ആയി മാറും പിന്നെ KS ഉം 𝜇𝑚 ഉം സ്ഥിരമാണ്Dm ൻറെ സമവാക്യം പകരം കൊടുത്താൽ പരമാവധി കോശത്തിലെ ഗാഢതയുടെ സമവാക്യമാണിത് ഇത് ലളിതമാക്കാൻ കഴിയും ആദ്യ കുറച്ച് ഘട്ടങ്ങൾ ഇവിടെ കാണിച്ചിരിക്കുന്നു ആദ്യമായി ചുരുക്കത്തിൽ ആക്കുന്നതിനു വേണ്ടി ഉപയോഗിക്കാം അപ്പോൾ xm ഇങ്ങനെയാകും പരമാവധി കോശ ഗാഢതയുടെ സമവാക്യമാണിത് ഉം ഉം ആണെങ്കിൽ Xm കിട്ടുന്നത് തൽഫലമായി സെൽ പ്രൊഡക്റ്റിവിറ്റി Rm ഇങ്ങനെ ആകും ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ നമുക്ക് ചില സാധാരണ വിലകൾ കൊടുത്തു നോക്കാം യീസ്റ്റിൽ സാധാരണ വിലകൾ സബ്സ്ട്രേറ്റിന്റെ ഗാഢത Si 50 gl 1 ഒരു ഇൻലെറ്റ് സബ്സ്ട്രേടിന്റെ പരമാവധി ഉൽപാദനക്ഷമത അപ്പോൾ R 12 5 gl 1h 1 ആയിരിക്കും m അതുപോലെ സസ്തന കോശങ്ങളുടെവിലകൾ അതായത് ഇവിടെ നിങ്ങൾക്ക് യീസ്റ്റിലെ സാധാരണ ഉൽപാദനക്ഷമതയായി മണിക്കൂറിൽ 12 5 ഗ്രാം ലിറ്ററിൽ ലഭിക്കും സസ്തന കോശങ്ങളിൽ മണിക്കൂറിൽ 0 025 ഗ്രാം മാഗ്നിറ്റ്യൂഡുകളിലെ മാറ്റം നിങ്ങൾക്ക് കാണാം ഇപ്പോൾ തുടർച്ചയായ ബാച്ച് പ്രവർത്തനങ്ങളുടെ ഉൽപാദനക്ഷമത താരതമ്യം ചെയ്യാം ഓരോ കേസിലും സാധ്യമായ പരമാവധി ഉൽപാദനക്ഷമത നമുക്ക് എടുക്കാം അനുപാതം എന്താണെന്ന് നോക്കാം ബാച്ചിനെ സംബന്ധിച്ചിടത്തോളം സാധ്യമായ പരമാവധി കോശ സാന്ദ്രത 𝑆𝑖𝑌𝑥𝑆 ആണെന്ന് നമുക്കറിയാം ബാച്ചിനുള്ള സമയം ലാഗ് ഘട്ടം ഇല്ലായെന്ന് കരുതുക എന്നാൽ നമുക്ക് കിട്ടുന്നത് നമ്മൾ ഇത് അനുമാനിക്കുമ്പോൾ 𝐾𝑆 ≪ 𝑆 µ 𝜇𝑚 ലാഗ് ഫേസ് പ്രധാനമാണെങ്കിൽ ഉൽപാദനക്ഷമതയുടെ അനുപാതത്തെക്കുറിച്ച് ഒരു ധാരണ ലഭിക്കുന്നതിനാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് ഞാൻ അത് ഒരു പൊതു അടിസ്ഥാനത്തിൽ ചെയ്യാൻ ശ്രമിക്കുകയാണ് അതിനാൽ സാധ്യമായ ഏറ്റവും ലളിതമായ കേസ് ഞാൻ എടുക്കുന്നു അതിനാൽ ബാച്ചിന്റെ ഉൽപാദനക്ഷമത എന്നത് ബാച്ചിനായി എടുക്കുന്ന സമയം ഹരിക്കണം പരമാവധി കോശ ഗാഢതയാണ് അതായത് ഒരു യൂണിറ്റ് സമയത്തിന് ഒരു യൂണിറ്റ് വ്യാപ്തത്തിൽ ഉൽപാദിപ്പിക്കുന്ന തുക X0 മുതൽ xm വരെ പോകുന്ന ഒരു ബാച്ചിന്റെ ഉൽപാദനക്ഷമത സമവാക്യമാണിത് ഇപ്പോൾ കീമോസ്റ്റാറ്റ് കേസിൽ പരമാവധി ഉൽപാദനക്ഷമത ഉണ്ടെന്ന് നമ്മൾ കണ്ടു അത് കൊണ്ട് ഒരു കീമോസ്റ്റാറ്റിന്റേയും ബാച്ചിന്റെ യും പരമാവധി ഉൽപാദനക്ഷമത അനുപാതം എന്നത് സാധാരണ ഒരു ബാച്ച് സാഹചര്യത്തിൽ നിങ്ങൾക്ക് പരമാവധി കോശ ഗാഢത ഉണ്ടാകും പ്രാരംഭ കോശ ഗാഢതയുടെ 10 മുതൽ 30 മടങ്ങ് വരെ ഉണ്ടാകുമത് XmXo ആയത്കൊണ്ട് ഒരു ബാച്ചിൽ 10 30 മടങ്ങാണ് അതിനാൽ ഒരു കീമോസ്റ്റാറ്റിന്റെ പരമാവധി ഉൽപാദനക്ഷമത ഒരു ബാചുമായി താരതമ്യം ചെയുമ്പോഴുള്ള അനുപാതം മൂന്ന് മുതൽ നാല് വരെയാണ് കീമോസ്റ്റാറ്റ് ഒരു ബാച്ച് റിയാക്ടറിനേക്കാൾ മൂന്നോ നാലോ ഇരട്ടി ഉൽപാദനക്ഷമതയുള്ളതാണ് എന്നർത്ഥം അതിനാൽ ഈ വിശകലനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഉൾക്കാഴ്ച കൂടിയാണിത് അതായത് ഒരു ബാച്ചിനേക്കാൾ മൂന്നോ നാലോ ഇരട്ടി ഉൽപാദനക്ഷമതയാണ് കീമോസ്റ്റാറ്റിന് ഉള്ളത് അതിനാൽ വ്യവസായത്തിൽ തുടർച്ചയായ പ്രവർത്തനത്തിലേക്ക് മാറുന്നതിലൂടെ മൂന്നോ നാലോ ഇരട്ടി ഉൽപാദനക്ഷമത പ്രതീക്ഷിക്കാം പക്ഷേ ഒരു തുടർച്ചയായ മോഡിൽ പ്രവർത്തിക്കുന്നതിന് ഒരു ബാച്ച് മോഡിൽ പ്രവർത്തിക്കുന്നതിനേക്കാൾ വളരെയധികം പരിശ്രമം ആവശ്യമാണ് അത്കൊണ്ട് വ്യവസായങ്ങൾ ഒരു ബാച്ചിനെ ഇഷ്ടപ്പെടുന്നു പക്ഷേ പൂർണ്ണമായും യാന്ത്രികം ആണെങ്കിൽ ചില വ്യവസായങ്ങൾ തുടർച്ചയായി ചെയ്യുന്നതിലേക്ക് മാറാറുണ്ട് കാരണം തുടർച്ചയായി ബയോ റിയാക്ടർ ഒരു ബാച്ച് ബയോ റിയാക്ടറിനേക്കാൾ മൂന്നോ നാലോ ഇരട്ടി ഉൽപാദനക്ഷമതയുള്ളതാണെന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു ഒരു പ്രാക്ടീസ് പ്രശ്നം നമുക്ക് നോക്കാം ഞാൻ ഈ പ്രശ്നം നൽകി അടുത്ത പ്രഭാഷണത്തിൽ പരിഹരിക്കും ഈ പ്രശ്നത്തിന് ശേഷം നമ്മൾ തുടരും ഈ പ്രത്യേക പ്രഭാഷണത്തിൽ ബാക്കി പൂർത്തിയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നതു ഫെഡ് ബാച്ച് പ്രവർത്തനം ആണ് പ്രാക്ടീസ് പ്രശ്നം എന്തെന്ന് വെച്ചാൽ പ്രോസസ് ചെയ്ത ഫംഗസ് വിഷാംശം ഉള്ള ലോഹങ്ങളുടെ നല്ല ബയോസോർബന്റുകളാണ് അതിനാൽ അവ വ്യവസായ മാലിന്യങ്ങളിൽ നിന്ന് ക്രോമിയം മെർക്കുറി കോബാൾട്ട് മറ്റ് ഹെവി ലോഹങ്ങൾ എന്നിവ നീക്കം ചെയ്യാൻ ഉപയോഗിക്കാം മേൽപ്പറഞ്ഞ ആവശ്യത്തിനായി ഒരു കീമോസ്റ്റാറ്റിന്റെ ഇൻലെറ്റിലെ വളർച്ചയെ പരിമിതപ്പെടുത്തുന്ന ഫംഗസ് ലിറ്ററിന് 50 ഗ്രാം ആണ് ഫംഗസ് മോണോഡ് ഭൌതികശാസ്ത്രത്തെ പിന്തുടരുന്നു പരമാവധി നിർദ്ദിഷ്ട വളർച്ചാ നിരക്ക് മണിക്കൂറിൽ 0 5 ആണ് പരമാവധി വളർച്ചയുടെ സബ്സ്ട്രേട് നിരക്ക് ലിറ്ററിന് 1 ഗ്രാം ആണ് ഇത് എയറോബിക് വളർച്ചയിലാണ് 0 5 ആണ് സബ്സ്ട്രേറ്റിൽനിന്നുള്ള സെൽ യീൽഡ് കോയെഫിഷൻറ് നൽകിയ ഇൻലെറ്റ് വോള്യൂമെട്രിക് ഫ്ലോ റേറ്റിൽ മുകളിൽ പറഞ്ഞവ വച്ച് ഒരു കീമോസ്റ്റാറ്റിന്റെ ഏറ്റവും കുറഞ്ഞ വലുപ്പം കണ്ടെത്തുക നിങ്ങൾക്ക് ഇതിൻറെ ഉത്തരം കണ്ടെത്താമല്ലോ അല്ലേ അടുത്ത പ്രഭാഷണത്തിൽ ഇതിനുത്തരം നാം കണ്ടെത്തും ഇനി നമുക്ക് തുടരാം ഫെഡ് ബാച്ച് പ്രവർത്തനം ഫെഡ് ബാച്ച് പ്രവർത്തനം എങ്ങനെ വിശകലനം ചെയ്യാം മുന്പ് പറഞ്ഞ പോലെ ഫെഡ് ബാച്ച് എന്നാൽ ഇടയ്ക്കിടെ കൂട്ടിച്ചേർക്കൽ ഇടയ്ക്കിടെ നീക്കംചെയ്യൽ ഒരുമിച്ച് അല്ലെങ്കിൽ ഓരോന്നായി ഫെഡ് ബാച്ച് ഓപ്പറേഷൻ ചെയ്യുന്നതിന് ഒരു കാരണമുണ്ട് ഒരു വ്യവസായത്തിലെ ഏറ്റവും സാധാരണമായ പ്രക്രിയയാണിത് കൾടിവേഷൻ സമയത്ത് രൂപംകൊണ്ട ഒരു മെറ്റാബോലൈറ്റിന്റെ ദോഷകരമായ പ്രഭാവം കുറയ്ക്കുക അല്ലെങ്കിൽ ചില പ്രത്യേക ഫീഡ് തന്ത്രങ്ങൾ നടപ്പാക്കേണ്ടിവരുമ്പോൾ ചില വ്യവസ്ഥകളിൽ ഇതിനൊക്കെയാണ് ഫെഡ് ബാച്ച് പ്രവർത്തനം ചെയ്യുന്നതെന്ന് നമ്മൾ ഇതിനകം കണ്ടു ഇൻപുട്ട് മാത്രമുള്ള ഔട്പൂട്ടില്ലാത്ത ഈ പ്രവർത്തനം വിശകലനം ചെയ്യാം വിശകലനം ചെയ്യാൻ ഞാൻ ഒരു ലളിതമായ കേസ് എടുക്കുകയാണ് വിശകലനം കൂടുതൽ സങ്കീർണ്ണമാണ് എങ്കിലും നിങ്ങൾക്ക് എക്സ്പ്രഷനുകൾ നേടാനും അവ പരിഹരിക്കാനും പിന്നീട്കഴിയും അതിനാൽ ഈ സാഹചര്യത്തിൽ ഇൻപുട്ട് മാത്രമേയുള്ളൂ ഔട്ട്പുട്ട് ഇല്ല T യുടെ ഒരു ഫംഗ്ഷനായി Fi എന്നത് പ്രവേശിക്കുന്ന സ്ട്രീമിന്റെ വോള്യൂമെട്രിക് ഫീഡ് നിരക്കാണെന്നും xi എന്നത് പ്രവേശന സ്ട്രീമിലെ കോശ ഗാഢതയാണ് ഇത് അണുവിമുക്തമായ ഫീഡല്ല കൂടാതെ വോള്യൂമെട്രിക് അടിസ്ഥാനത്തിൽ കോശ വളർച്ചാ നിരക്കാണ് rx ബയോറിയാക്ടറിൻറെ ഉള്ളിലെ കോശങ്ങളിലോ ബയോറിയാക്ടർ ബ്രോത്തിലോ ഉള്ള പദാർഥങ്ങളുടെ ബാലൻസ് ബ്രോത്ത് ഒരു സിസ്റ്റം എന്ന് കണക്കാക്കി ചെയ്താൽ ഇതാണ് മൊത്തത്തിലുള്ള ബാലൻസ് സമവാക്യം ഔട്ട്പുട്ട് ഇല്ല ഇൻപുട്ട് മാത്രമേ യുള്ളൂ കോശങ്ങളുടെ ഉപഭോഗം ഇല്ലെന്ന് നമുക്ക് അനുമാനിക്കാം ഇത് സ്ഥിരമായ അവസ്ഥയല്ല അതിനാൽ പൂജ്യമാകില്ല അത്കൊണ്ട് ഇതിനെല്ലാം പകരം കൊടുത്താൽ ഇവിടെ സ്ഥിരമായ വില ഒന്നിനുമില്ല Fi എന്നത് t യുടെ ഒരു ഫംഗ്ഷനാണ് xi എന്നത് t ന്റെ ഒരു ഫംഗ്ഷനാണ് v ഒരു സ്ഥിരമല്ല എല്ലാം അവിടെത്തന്നെയുണ്ട് dvdt ഒഴികെ ബാക്കിയുള്ളവ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും അത് ചെയ്യുന്നതിന് നമുക്ക് ബയോറിയാക്റ്റർ ബ്രോത്തിന്റെ മൊത്തം മാസ്സ് ബാലൻസ് നോക്കാം മൊത്തം മാസ്സ് ബാലൻസിൽ ഔട്ട്പുട്ട് ഇല്ല മാസ്സിൻറെ ഉത്പാദനമില്ല ഉപഭോഗമില്ല അതിനാൽ എല്ലാം പൂജ്യത്തിലേക്ക് പോകുന്നു അപ്പോൾ പകരം കൊടുക്കുക സാധാരണയായി ഇൻലെറ്റ് ഔട്ട്ലെറ്റ് സാന്ദ്രത ഒന്നുതന്നെയാണ് സ്ഥിരവും ആണ് അതിനാൽ നമുക്ക് അവ ഡെറിവേറ്റീവിൽ നിന്ന് പുറത്തെടുക്കാം ൽ ക്കു പകരം കൊടുത്താൽ ഇതൊക്കെ അറിയാമെങ്കിൽ ഫെഡ് ബാച്ച് ബയോറിയാക്ടറിലെ കോശങ്ങളുടെ ഗാഢത പ്രൊഫൈൽ കണ്ടുപിടിക്കാൻ പറ്റും ഈ മൊഡ്യൂൾ ഇവിടെ അവസാനിപ്പിക്കുന്നു വാസ്തവത്തിൽ ബയോറിയാക്ടർ വിശകലനത്തിൽ ഈ മോഡ്യൂൾ നമ്മൾ പൂർത്തിയാക്കിയിരിക്കുന്നു നമ്മൾ ബാച്ച് ബയോറിയാക്ടർ ആദ്യം കണ്ടു അവ വിശകലനം ചെയ്തു ചില ഉപയോഗപ്രദമായ കണക്കാകൽ ലഭിക്കുന്നതിന് ബാച്ച് ബയോറിയാക്ടർ വിശകലനം ചെയ്തു തുടർന്ന് നമ്മൾ തുടർച്ചയായ പ്രവർത്തനം നോക്കി ദയവായി തന്നിരിക്കുന്ന പ്രശ്നം ചെയ്യുക ഒടുവിൽ ഫെഡ് ബാച്ച് പ്രവർത്തനം എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന് നമ്മൾ ഹ്രസ്വമായി നോക്കി